നമസ്കാരം ഇന്നത്തെ സെഷനിൽ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചു ഇലക്ട്രിക്കൽ സർക്യൂട്ട് പരിഹരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി രീതി യെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും തുടർന്ന് ഗണിത വിശകലനത്തിനായി നമ്മൾ മുന്നോട്ട് പോകും ഇപ്പോൾ നമുക്ക് നോക്കാം സ്റ്റാർ ഡെൽറ്റ പരിവർത്തനം എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് സാധാരണയായി സർക്യൂട്ട് അത്ര ലളിതമല്ലെന്ന് നിങ്ങൾ കണ്ടിരിക്കാം അവിടെ നിങ്ങൾക്ക് റെസിസ്റ്ററുകളോ ഇൻഡക്ടറുകളോ കപ്പാസിറ്ററുകളോ സീരീസിലോ സമാന്തരത്തിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇത് സീരീസ് സമാന്തര എന്നിവയുടെ സംയോജനമാണ് ചിലപ്പോൾ ഇതിന് വ്യത്യസ്ത ആകൃതിയുണ്ട് സർക്യൂട്ടിനെ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നു അതായത് ഇവിടെ റെസിസ്റ്റൻസ് ബ്രിഡ്ജിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് സീരീസ് അല്ലെങ്കിൽ സമാന്തരമല്ല ഈ സാഹചര്യങ്ങളിൽ നെറ്റ്വർക്കുകളുടെ 3 ടെർമിനൽ തുല്യത ഉപയോഗിച്ച് സർക്യൂട്ടുകളുടെ ലളിതവൽക്കരണം നടത്താം 3 ടെർമിനൽ തുല്യത കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് അടിസ്ഥാനപരമായി Y അല്ലെങ്കിൽ t അല്ലെങ്കിൽ ഡെൽറ്റ രൂപത്തിലുള്ള സർക്യൂട്ടുകൾ അല്ലെങ്കിൽ പൈ നെറ്റ്വർക്കുകൾ സാധാരണയായി 3 ടെർമിനൽ നെറ്റ്വർക്കുകളായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക ചിത്രം നോക്കുക ആണെങ്കിൽ ഇത് ഒരു Y അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത് ഒരു സ്റ്റാർ സർക്യൂട്ടാണ് അവിടെ റെസിസ്റ്ററുകൾ സ്റ്റാർ രൂപത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതേ സമയം നിങ്ങൾ ഇത് അൽപ്പം നീട്ടുകയാണെങ്കിൽ അത് ഒരു ടി നെറ്റ്വർക്കായി മാറും അതിനാൽ അടിസ്ഥാനപരമായി സ്റ്റാർ അല്ലെങ്കിൽ ടി ഒരേ തരത്തിലുള്ള സർക്യൂട്ടുകളാണ് അതുപോലെഈ പ്രത്യേക ചിത്രം നോക്കുക ആണെങ്കിൽ ഇത് ഡെൽറ്റ ആണ് അവയുടെ റെസിസ്റ്ററുകൾ ത്രികോണാകൃതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ വികസിപ്പിക്കുകയാണെങ്കിലോ അല്പം വളച്ചൊടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെൽറ്റയെ പൈ ഫോർമാറ്റിലേക്ക് പരിവർത്തനം ചെയ്യാം അതിനാൽ അടിസ്ഥാനപരമായി ഡെൽറ്റയും പൈയും രണ്ടും തുല്യമാണ് ഘടകങ്ങളുടെ ക്രമീകരണത്തിൽ വരുന്ന മാറ്റം മാത്രമാണ് കാര്യം ഇപ്പോൾ ഈ സർക്യൂട്ടുകളിൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഈ കേസിൽ 1 2 3 4 പോലുള്ള ടെർമിനലുകൾ സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ ടി യ്ക്കും നിങ്ങൾക്ക് 1 2 3 4 പോലുള്ള ടെർമിനലുകളുടെ പേരുകൾ എഴുതാം ഡെൽറ്റ പൈ എന്നിവയ്ക്കും അതുപോലെ എഴുതാൻ കഴിയും ഇപ്പോൾ ഈ സർക്യൂട്ടുകൾ വളരെ വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായി കാണാൻ കഴിയും അല്ലെങ്കിൽ അവ സ്വയം ഒരു സർക്യൂട്ട് ആകാം ഇപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാമെന്നതാണ് ചോദ്യം ഇപ്പോൾ നിങ്ങൾ ഡെൽറ്റയെ സ്റ്റാർ ആക്കി മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഡെൽറ്റയേക്കാൾ സ്റ്റാർ ഇൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ സൌകര്യപ്രദമാണ് കൂടാതെ ഡെൽറ്റ കോൺഫിഗറേഷൻ അടങ്ങിയിരിക്കുന്ന സർക്യൂട്ട് നിങ്ങൾക്ക് പരിഹരിക്കാനും കഴിയും ഇതിനർത്ഥം ഡെൽറ്റ രൂപത്തിൽ ഒരു പ്രത്യേക സെഗ്മെന്റ് ഉള്ള സർക്യൂട്ട് പരിഹരിക്കാൻ പ്രയാസമാണ് നിങ്ങൾക്ക് ആ ഡെൽറ്റ രൂപത്തെ തുല്യ സ്റ്റാർ സർക്യൂട്ട് ആക്കി മാറ്റുകയാണെങ്കിൽ സർക്യൂട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരങ്ങൾ ലഭിക്കുന്ന രീതിയിൽ പരിഹരിക്കാനാകും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിലുള്ള ഡെൽറ്റ നെറ്റ്വർക്കിൽ നിങ്ങൾ ഒരു സ്റ്റാർ നെറ്റ്വർക്ക് സൂപ്പർപോസ് ചെയ്യുകയും സ്റ്റാർ നെറ്റ്വർക്കിൽ തുല്യമായ റെസിസ്റ്റൻസ് കണ്ടെത്തുകയും വേണം അതിനാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ആ സ്റ്റാർനെ ഡെൽറ്റയിൽ ഉൾപ്പെടുത്തും ഈ ടെർമിനലുകളിലൂടെ നിങ്ങൾ കാണുന്ന തുല്യമായ റെസിസ്റ്റൻസ് നിങ്ങൾ താരതമ്യം ചെയ്യും എന്നിട്ടു അവയെ തുല്യപ്പെടുത്തണം സ്റ്റാർ അല്ലെങ്കിൽ തുല്യമായ ഡെൽറ്റ സർക്യൂട്ടിന്റെ മൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഡെൽറ്റയെ സ്റ്റാർ ആക്കി മാറ്റാൻ ശ്രമിക്കണം അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റയ്ക്കും സ്റ്റാർ ഇനുമായി ഈ 2 ടെർമിനലുകളിലൂടെ കാണാൻ സാധിക്കുന്ന തുല്യമായ റെസിസ്റ്റൻസ് ഇന്റെ മൂല്യം നമ്മൾ കണ്ടെത്താൻ പോകുന്നു ഇപ്പോൾ നിങ്ങൾ സ്റ്റാർ സർക്യൂട്ടിന്റെ തുല്യമായ റെസിസ്റ്റൻസ് ഈ പ്രത്യേക ടെർമിനലിലൂടെ കാണുന്ന തുല്യ റെസിസ്റ്റൻസ് R1 R3 ആയിരിക്കും നിങ്ങൾ ഡെൽറ്റ സർക്യൂട്ടിലേക്ക് പോയാൽ തുല്യമായ റെസിസ്റ്റൻസ് Rb ഉം Rb കു Ra Rc സമാന്തരവുമാണ് അതുകൊണ്ടാണ് for ഡെൽറ്റ എന്നാൽ Rb || Ra Rc ആയിരിക്കും സ്റ്റാർ സർക്യൂട്ടിന്റെ കാര്യത്തിൽ R1 പ്ലസ് R3 R1R3 ആയിരിക്കും ഇപ്പോൾ ഡെൽറ്റയെ സ്റ്റാർ ആക്കി മാറ്റുന്നതിനുള്ള വ്യവസ്ഥ രണ്ട് ടെർമിനലുകളിലൂടെയും കാണുന്ന തുല്യമായ റെസിസ്റ്റൻസ് ഇന്റെ മൂല്യം തുല്യമായിരിക്കണം എന്നതാണ് അതിനാൽ ഇതിനർത്ഥം നിങ്ങൾ ഡെൽറ്റയ്ക്കായി കണ്ടെത്തിയ R12 സ്റ്റാർന് തുല്യമായി കണ്ടെത്തിയ R12 മായി തുലനം ചെയ്യണം ഇപ്പോൾ നിങ്ങൾ R12 സ്റ്റാർ ഇന്റെ മൂല്യങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് R1 R3 ലഭിച്ചു R12 ഡെൽറ്റയെ സംബന്ധിച്ചിടത്തോളം അത് Rb കു സമാന്തരമായി Ra Rc ആയിരുന്നു അതിനാൽ നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ അത് അതുപോലെ R13 ന് ഇപ്പോൾ നിങ്ങൾ എന്ന സമവാക്യം ൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ പക്ഷേ അടുത്തതായി നിങ്ങൾ ഇപ്പോൾ കണക്കാക്കിയത് R1 R2 ആണ് ഇപ്പോൾ നിങ്ങൾ രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ 2 ഇരുവശത്തുനിന്നും കളയുകയും അവസാനമായി നിങ്ങൾക്ക് ലഭിക്കും സമാനമായി ഇപ്പോൾ പ്രധാന കാര്യം നിങ്ങൾ മുകളിലുള്ള സമവാക്യങ്ങൾ മനപാഠമാക്കേണ്ടതില്ല എന്നതാണ് കാരണം നിങ്ങൾ ലളിതമായ പരിവർത്തന നിയമം പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് R1 R2 R3 എന്നിവയുടെ മൂല്യം എളുപ്പത്തിൽ ലഭിക്കും എന്താണ് നിയമം ഇപ്പോൾ ഓരോ റെസിസ്റ്ററിലും R അതായത് ഒരു സ്റ്റാർ ആയി കണക്ട് ചെയ്ത നെറ്റ്വർക്ക് ഇൽ ഓരോ റെസിസ്റ്ററും അടുത്തുള്ള 2 ഡെൽറ്റ ശാഖകളിലെ റെസിസ്റ്ററുകളുടെ ഗുണന ഫലമാണ് എന്നിട്ട് അതിനെ 3 സ്റ്റാർ റെസിസ്റ്ററുകളുടെ ആകെത്തുക കൊണ്ട് ഹരിക്കുന്നു എന്താണ് ഇതിനർത്ഥം ഇതിനർത്ഥം നിങ്ങൾ സ്റ്റാർ ഡെൽറ്റയ്ക്കുള്ളിൽ വച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർക്യൂട്ട് ലഭിക്കും അവിടെ Rb Ra Rc ഡെൽറ്റയുടെ ശാഖകളും R1 R2 R3 എന്നിവ സ്റ്റാർ ന്റെ ശാഖകളുമാണ് അതിനാൽ ഡെൽറ്റ ശാഖകളുടെ അടിസ്ഥാനത്തിൽ R1 ന്റെ മൂല്യം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും R1 ന് സമീപമുള്ള ഡെൽറ്റ ശാഖകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് Rb Rc എന്നിവയാണ് അതിനാൽ R1 ന് മൂല്യം RbRc അതായത് അടുത്തുള്ള 2 ശാഖകളുടെ ഗുണനം എന്നിട്ട് Ra Rb Rc കൊണ്ട് ഹരിക്കുന്നു അതുപോലെ R2 നെ സംബന്ധിച്ചിടത്തോളം R2 ന് കുറുകെ അടുത്തുള്ള ശാഖകൾ കണ്ടെത്തുകയാണെങ്കിൽ അവ Rc Ra എന്നിവയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും R2 ന്റെ മൂല്യം ഹരണംഇൽ നിന്ന് ലഭിക്കും സമാനമായി R3 കു അടുത്തുള്ള ഡെൽറ്റ ശാഖകൾ ആണ് അതിനാൽ അത് ന്യുമറേറ്റർ വരും അത് ഹരണം അതിനാൽ നിങ്ങൾ ഈ കൺവെൻഷൻ പിന്തുടരുകയാണെങ്കിൽ R1 R2 R3 എന്നിവയ്ക്കുള്ള സൂത്രവാക്യങ്ങൾ എങ്ങനെ മനപാഠമാക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇപ്പോൾ നമുക്ക് സ്റ്റാർ ഇൽ നിന്ന് ഡെൽറ്റ ലേക്ക് ഉള്ള പരിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഒരു സ്റ്റാർ നെറ്റ്വർക്ക് തുല്യമായ ഡെൽറ്റാ നെറ്റ്വർക്കാക്കി മാറ്റുന്നതിനുള്ള പരിവർത്തന സൂത്രവാക്യങ്ങൾ ലഭിക്കാൻ നമ്മൾ R1 R2 R3 എന്നിവയുടെ മൂല്യം ഉപയോഗിക്കുന്നു നമ്മൾ അത് കണക്കാക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആ മൂല്യങ്ങൾ ഉപയോഗിക്കുകയും ആ മൂല്യങ്ങൾ ൽ ഇടുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും ഇത് ലളിതമാണ് നിങ്ങൾ മൂല്യം നൽകി ലളിതമാക്കുക നിങ്ങൾക്ക് ഈ പദപ്രയോഗം ലഭിക്കും ഇപ്പോൾ നിങ്ങൾ Ra യുടെ തുല്യ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ സമവാക്യം R1 ന്റെ മൂല്യം കൊണ്ട് ഭാഗിക്കും ഇപ്പോൾ R1 ന്റെ മൂല്യം എന്താണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് വെട്ടിക്കളയുകയും Rb Rc ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും കളയുകയും ചെയ്യുന്നു അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് Ra ആണ് അതിനാൽ അതിനർത്ഥം ഇപ്പോൾ ഇവിടെ വീണ്ടും പ്രധാന കാര്യം നിങ്ങൾ മുകളിലുള്ള സമവാക്യങ്ങൾ മനപാഠമാക്കേണ്ടതില്ല എന്നതാണ് നിങ്ങൾ പരിവർത്തന നിയമം പാലിക്കണം എന്താണ് ആ പരിവർത്തന നിയമം ഡെൽറ്റ നെറ്റ്വർക്കിലെ ഓരോ റെസിസ്റ്ററും ഡെൽറ്റ സാധ്യമായ എല്ലാ റെസിസ്റ്ററുകളുടെയും ഒരു സമയം രണ്ടെണ്ണം എടുത്തുള്ള ഗുണന ഫലങ്ങളുടെ ആക തുക മറു വശത്തുള്ള വിപരീത സ്റ്റാർ റെസിസ്റ്റർ കൊണ്ട് ഹരിക്കുന്നത് തുല്യമാണ് അതിനർത്ഥം നിങ്ങൾ Ra യുടെ മൂല്യം കണ്ടെത്താൻ പോകുന്നുവെന്ന് കരുതുക ഒരു സമയം 2 എടുത്ത സ്റ്റാർ റെസിസ്റ്ററുകളുടെ എല്ലാ ഗുണന ഫലങ്ങളുടെയും ആകെത്തുകയാണ് ന്യൂമറേറ്ററിൽ അതായത് ന്യൂമറേറ്റർ ആയിരിക്കും ഡിനോമിനേറ്ററിൽ എന്താണ് വരുന്നത് ഡിനോമിനേറ്റർ എതിർ സ്റ്റാർ റെസിസ്റ്ററായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ വിപരീത സ്റ്റാർ റെസിസ്റ്റർ എന്താണ് വിപരീത സ്റ്റാർ റെസിസ്റ്റർ R1 ആണ് അതിനാൽ Ra ക്കായി നിങ്ങൾക്ക് യെ R1 കൊണ്ട് ഹരിക്കുക Rb യ്ക്കും നിങ്ങൾക്ക് ന്യൂമറേറ്റർ സമാനമാണ് അതായത് കൊണ്ട് സ്റ്റാർ ഇൽ Rb കു എതിർവശത്തുള്ള റെസിസ്റ്റർ കൊണ്ട് ഹരിക്കുന്നു അത് R2 ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് Rb യുടെ മൂല്യം ലഭിക്കും അതുപോലെ Rc യെ സംബന്ധിച്ചിടത്തോളം ഇത് Rc ന് വിപരീത റെസിസ്റ്റർ R3 കൊണ്ട് ഹരിക്കപ്പെടും അതിനാൽ ഈ രീതിയിൽ സ്റ്റാർ കണക്റ്റുചെയ്ത ഘടകങ്ങൾ ഉപയോഗിച്ച് അനുബന്ധ ഡെൽറ്റ ഘടകങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ഇപ്പോൾ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നതിന് ഈ പ്രത്യേക സർക്യൂട്ടിൽ ഉള്ള കറന്റ് ന്റെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കാം ഇപ്പോൾ അതിനുമുമ്പ് നമ്മൾ ആദ്യം Rab യുടെ മൂല്യം കണ്ടെത്തണം അതാണ് ടെർമിനൽ എബി യിലുടനീളം തുല്യമായ റെസിസ്റ്റൻസ് ഇപ്പോൾ ഈ പ്രത്യേക സർക്യൂട്ട് കണ്ടാൽ അത് സങ്കീർണ്ണമായി തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത സ്റ്റാർ ഡെൽറ്റ പരിവർത്തന സാങ്കേതികത പിന്തുടരുകയാണെങ്കിൽ ഇത് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇപ്പോൾ നിങ്ങൾ സർക്യൂട്ട് കാണുകയാണെങ്കിൽ 2 സ്റ്റാർ നെറ്റ്വർക്കുകളും 3 ഡെൽറ്റ നെറ്റ്വർക്കുകളും ഉണ്ട് നിങ്ങൾ ഈ ഘടകവും ഈ ഘടകവും ഈ ഘടകവും കണ്ടാൽ അത് ഒരു ഉപ നെറ്റ്വർക്ക് സൃഷ്ടിക്കും അതുപോലെ ഈ ഘടകം ഈ ഘടകം വീണ്ടും ഈ ഘടകം നെറ്റ്വർക്കിന്റെ മറ്റൊരു സ്റ്റാർ ഉപവിഭാഗം സൃഷ്ടിക്കും അതുപോലെ ഈ 2 ഉം ഈ പ്രത്യേക ഘടകവും നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഒരു പൈ പോലെയാണ് ഇതിനർത്ഥം ഇത് വീണ്ടും ഒരു ഡെൽറ്റ കണക്റ്റുചെയ്ത വിഭാഗമാണ് അതുപോലെ ഇതും ഒരു ഡെൽറ്റ കണക്റ്റുചെയ്ത വിഭാഗമാണ് മൂന്നാമത്തേത് ഇതാണ് ഇത് വീണ്ടും നെറ്റ്വർക്കിന്റെ ഡെൽറ്റ കണക്റ്റുചെയ്ത ഉപവിഭാഗമാണ് അതിനാൽ ഞങ്ങൾക്ക് 3 ഡെൽറ്റ സബ് നെറ്റ്വർക്കുകളും 2 സ്റ്റാർ സബ് നെറ്റ്വർക്കുകളും ഉണ്ടെന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ ഇത് ലളിതമാക്കാൻ ഇവയിൽ E1 ൽ മാറ്റം വരുത്തേണ്ടതിനാൽ നിങ്ങൾക്ക് ലളിതമാക്കാൻ കഴിയും ഇനി നമുക്ക് 5 10 20 ഓം റെസിസ്റ്ററുകൾ അടങ്ങിയ സ്റ്റാർ നെറ്റ്വർക്ക് പരിവർത്തനം ചെയ്യാം അതിനാൽ 5 10 20 ഇവ 3 റെസിസ്റ്ററുകൾ ആണ് നമുക്ക് മൂല്യം ഇടാം ഇത് R1 ആണ് അത് 10 ഓം ആണ് R2 20 ohm ഉം R3 5 ohms ഉം ആണ് അതിനാൽ തുല്യമായ ഡെൽറ്റ സൃഷ്ടിക്കേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ഒരു സെഗ്മെന്റും ഇവിടെ ഒരു സെഗ്മെന്റും മൂന്നാം സെഗ്മെന്റും ഇവിടെ വരും അപ്പോൾ ഇതിന്റെ മൂല്യം എന്തായിരിക്കും ഡെൽറ്റ ഘടകത്തിന്റെ മൂല്യം നിങ്ങൾ കണക്കാക്കി ഇത് 2 ഘടകങ്ങളുടെ ഗുണത്തിന്റെ ആകെത്തുകയാണ് ഒരു സ്റ്റാർ ഇലെ 2 ഘടകങ്ങളുടെ സാധ്യമായ എല്ലാ ഗുണന ഖഡ്ഗങ്ങളും ഇവിടെ ആദ്യത്തെ ഘടകം എന്തായിരിക്കും 5 10 പ്ലസ് 10 20 പ്ലസ് 20 5 5101020205ഭാഗം നമ്മൾ ഡിനോമിനേറ്ററിൽ എന്തെഴുതും എതിർദിശയിൽ ഉള്ള സ്റ്റാർ ലെ ഘടകം എഴുതുന്നു അപ്പോൾ ഈ കേസിൽ എന്തായിരിക്കും എതിർദിശയിൽ ഉള്ള സ്റ്റാർ ലെ ഘടകം 20 ആണ് ഈ പ്രത്യേക വിഭാഗത്തിന് എതിർദിശയിൽ ഉള്ള സ്റ്റാർ ഘടകം 20 ഓം ആണ് അതിനാൽ ഈ ഘടകത്തിന്റെ മൂല്യം എന്തായിരിക്കും നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ ഇത് 350 ആയി ഇത് 20 കൊണ്ട് ഹരിക്കപ്പെടും അതിനാൽ ഇതിന്റെ മൂല്യം 17 5 ആയിരിക്കും അതുപോലെ ഈ സെഗ്മെന്റിനും നിങ്ങൾക്ക് കണക്കാക്കാം ഇത് എല്ലായ്പ്പോഴും സമാനമായിരിക്കും നിങ്ങൾ ഇത് 5 ഓം കൊണ്ട് ഹരിക്കണം നിങ്ങൾ 350 ഓം 5 ഓം കൊണ്ട് ഹരിക്കണം അതിനാൽ ഈ സെഗ്മെന്റ് മൂല്യം 70 ആയിരിക്കും ഇതിനായി വീണ്ടും 350 ഓംഎതിർദിശയിൽ ഉള്ള ഘടകം 10 ഓം കൊണ്ട് ഹരിക്കണം അതിനാൽ നിങ്ങൾക്ക് 35 ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ലഭിച്ചത് നമ്മൾ ഇപ്പോൾ കണക്കാക്കിയ ഈ 3 മൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ നെറ്റ്വർക്കിന്റെ ഈ പ്രത്യേക ഉപവിഭാഗം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവ രണ്ടും സമാന്തരമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ രണ്ടും വീണ്ടും സമാന്തരവും ഈ രണ്ടും വീണ്ടും സമാന്തരവുമാണ് അതിനാൽ നിങ്ങൾ സമാന്തര ഘടകങ്ങളെല്ലാം സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഈ 2 ഘടകങ്ങൾക്ക് തുല്യമായത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 292 ഓം ലഭിക്കും ഈ 2 ഘടകങ്ങൾക്ക് തുല്യമായത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 5 ഓം ലഭിക്കും വീണ്ടും ഈ 2 ഘടകങ്ങൾക്ക് തുല്യമായത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 21 ഓം ലഭിക്കും ഇപ്പോൾ ഇത് വളരെ ലളിതമായ സർക്യൂട്ടാണ് എ ബി ടെർമിനലുകൾക് കുറുകേ തുല്യമായ റെസിസ്റ്റൻസ് കണക്കാക്കാൻ നിങ്ങൾക്ക് ഇത് പരിഗണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് Rab ലഭിക്കുന്നു 9 632 ഓം അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇവ രണ്ടും ശ്രേണിയിലാണ് അവയുടെ സംഗ്രഹം 21 ഓം നു സമാന്തരമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് Rab യുടെ മൂല്യം ലഭിക്കും ഇപ്പോൾ എന്താണ് കറന്റ് കറന്റ് നമ്മൾ ഇപ്പോൾ കണക്കാക്കിയ തുല്യമായ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് വോൾട്ടേജ് നെ ഭാഗിക്കണം അതിനാൽ വോൾട്ടേജ് 120 വോൾട്ട് ആണ് നിങ്ങൾ 9 632 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 458 ആമ്പിയർ ആയി കറന്റ് ലഭിക്കും ഇപ്പോൾ മെഷ് വിശകലനത്തെക്കുറിച്ച് സംസാരിക്കാം സർക്യൂട്ട് വിശകലനത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണിത് എന്തുകൊണ്ട് കാരണം ഇത് മെഷ് കറന്റുകൾ ഉപയോഗിച്ച് സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിനുള്ള മറ്റൊരു പൊതു നടപടിക്രമം നൽകുന്നു മെഷ് കറന്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് വേരിയബിളായി ലൂപ്പ് കറന്റ് പറയാൻ കഴിയും അതിനാൽ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ വൈദ്യുതധാരകളായ എന്നിവ മെഷ് കറന്റുകൾ എന്ന് വിളിക്കുന്നു ഇത് ബ്രാഞ്ച് കറന്റിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം സർക്യൂട്ടിന്റെ ഒരു പ്രത്യേക ബ്രാഞ്ച്ലൂടെയും ലൂപ്പിലൂടെയും ഒഴുക്കുന്ന ഒരേ കറന്റ് ആണ് ആ പ്രത്യേക കേസിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേക ലൂപ്പിലൂടെയും ഒഴുകുന്നത് ഇപ്പോൾ ഇതാണ് മെഷ് വിശകലനം ലൂപ്പ് വിശകലനം എന്നും വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷ് കറന്റ് രീതി എന്ന് പറയാം ഇപ്പോൾ ഇവിടെ സർക്യൂട്ട് വേരിയബിളായി എലമെന്റ് കറന്റ് നുപകരം മെഷ് കറന്റ് ഒരു സർക്യൂട്ട് വേരിയബിളായി ഉപയോഗിക്കുന്നു കാരണം ഇത് വളരെ സൌകര്യപ്രദമാണ് മാത്രമല്ല ഇത് ഒരേസമയം പരിഹരിക്കേണ്ട സമവാക്യങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലെന്നപോലെ മെഷ് കറന്റുമായി ബന്ധപ്പെട്ട 2 വേരിയബിളുകൾ മാത്രമേയുള്ളൂ നിങ്ങൾ ബ്രാഞ്ച് വേരിയബിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് R1 ന് 1 ബ്രാഞ്ച് കറന്റ് ഉണ്ടാകും അതുപോലെ R3 കു 1 ബ്രാഞ്ച് കറന്റും R2 ന് 1 ബ്രാഞ്ച് കറന്റും ഇവിടെ ബ്രാഞ്ച് കറന്റ് രീതി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വേരിയബിളുകൾ ഉണ്ട് മെഷ് കറന്റ് രീതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 2 വേരിയബിളുകൾ മാത്രമേ ഉണ്ടാകൂ അതിനാൽ സർക്യൂട്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായ സമവാക്യങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ ലൂപ്പും മെഷും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഒന്നിലധികം തവണ നോഡ് കടന്നു പോകാത്ത ഒരു അടച്ച പാത ആയി ലൂപ്പിനെ കണക്കാക്കാം ഇവിടെ ഇത് ഒരു ലൂപ്പാണ് ഇതും ഒരു ലൂപ്പ് ആണ് കാരണം ഇത് 1 നോഡ് 2 തവണ കടന്നു പോകുന്നില്ല എന്നാൽ മെഷ് ഒരു ലൂപ്പാണ് അതിൽ മറ്റൊരു ലൂപ്പും അടങ്ങിയിട്ടില്ല അതിനാൽ മെഷ് ഒരു പ്രത്യേക തരം ലൂപ്പായി കണക്കാക്കാം അതിൽ മറ്റൊരു ലൂപ്പും അടങ്ങിയിട്ടില്ല ഇപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് മികച്ച ഗ്രാഹ്യത്തിനുള്ള ഉദാഹരണം നമുക്ക് നോക്കാം പ്രത്യേക സർക്യൂട്ടിൽ നിങ്ങൾ abefa കാണും abefa 1 മെഷ് ആണ് bcdef മറ്റൊരു മെഷ് എന്നാൽ abcdefa ഒരു മെഷ് അല്ല അതിനാൽ abcdefa ഔട്ടർ ലൂപ്പ് ഒരു മെഷ് അല്ല എന്തുകൊണ്ട് കാരണം അതിൽ 2 ലൂപ്പുകൾ അടങ്ങിയിരിക്കുന്നു അതിനാലാണ് മെഷ് ഒരു പ്രത്യേക തരം ലൂപ്പായി കണക്കാക്കുന്നത് അതിൽ മറ്റൊരു ലൂപ്പും അടങ്ങിയിട്ടുണ്ടാകില്ല അജ്ഞാത വൈദ്യുതധാരകൾ കണ്ടെത്തുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് കിർചോഫിന്റെ വോൾട്ടേജ് Kirchhoff's voltage law നിയമം പ്രയോഗിക്കാൻ കഴിയും മെഷ് വിശകലനത്തിന്റെ ഒരു പ്രധാന സവിശേഷത മെഷ് വിശകലനം പ്ലാനർ ആയ സർക്യൂട്ടിന് മാത്രമേ ബാധകമാകൂ എന്നതാണ് പ്ലാനർ എന്നാൽ ശാഖകൾ പരസ്പരം കടക്കാത്ത ഒരു പ്രതലത്തിൽ വരയ്ക്കാൻ കഴിയുമെങ്കിൽ സർക്യൂട്ട് പ്ലാനർ ആണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഈ പ്രത്യേക ചിത്രം കാണുകയാണെങ്കിൽ ശാഖകൾ വെവ്വേറെയാണെന്നും ഒരു ശാഖയും മറ്റൊരു ശാഖയും മുറിക്കുന്നില്ലെന്നും കാണാൻ സാധിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത് പ്ലാനർ അല്ലാത്ത സർക്യൂട്ട് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ശാഖകൾ കുറുകേ പോകുന്നു അത് ഒരു പ്രതലത്തിൽ അല്ല ഇത് ഇപ്പോൾ ഒരു ത്രിമാന സർക്യൂട്ടായി മാറി അതിനാലാണ് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾക്കായി മെഷ് വിശകലനം ചെയ്യാൻ കഴിയാത്തത് പക്ഷേ പ്ലാനർ സർക്യൂട്ടുകൾക്കായി ഇത് ചെയ്യാൻ കഴിയും ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യം ചിലപ്പോൾ നിങ്ങൾ സർക്യൂട്ട് കാണുമ്പോൾ അതായത് ഏതാണ്ട് ഈ സർക്യൂട്ട് പോലെ കൂടാതെ ധാരാളം ശാഖകൾ കുറുകേ പോകുന്നു എന്ന് നിങ്ങൾ കാണും അതിനാൽ ആദ്യമാദ്യം നിങ്ങൾ ഇത് ഒരു പ്ലാനർ അല്ലാത്തതായി പരിഗണിക്കും എന്നാൽ നിങ്ങൾക്ക് ഒരു പ്ലാനർ സർക്യൂട്ട് ആകുന്ന തരത്തിൽ സർക്യൂട്ട് വീണ്ടും വരയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ മെഷ് കറന്റ് രീതി ഉപയോഗിക്കാം എന്താണ് ഇതിനർത്ഥം ഈ പ്രത്യേക സർക്യൂട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ 5 ഓം കുറുകെ പോകുന്നു എന്ന് നിങ്ങൾ കാണും ഇനി 5 ഓം ഇതുപോലെ ഇടുന്നതിനുപകരം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ 5 ഓം ഇട്ടാൽ അത് നോൺ കട്ടിംഗ് ബ്രാഞ്ചായി മാറും അതുപോലെ 3 ഓം ഈ പ്രത്യേക 6 ഓം ഈ രീതിയിലും ക്രമീകരിക്കാം നിങ്ങൾ ഇത് രണ്ടും നീക്കം ചെയ്ത് പുനർക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒടുവിൽ ഒരു പ്ലാനർ സർക്യൂട്ട് ലഭിക്കും അതിനാൽ മെഷ് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് ആ സർക്യൂട്ടിനെ പ്ലാനർ സർക്യൂട്ടായി പരിവർത്തനം ചെയ്യാനാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇതിനായി നിങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത നെറ്റ്വർക്ക് ടോപ്പോളജി വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഈ സർക്യൂട്ടിന്റെ ടോപ്പോളജിക്കൽ നെറ്റ്വർക്ക് സൃഷ്ടിക്കുമ്പോൾ നോഡുകളും ശാഖകളും അവയുടെ കണക്റ്റിവിറ്റി വിവരങ്ങളും മാറാത്ത രീതിയിൽ പുനർക്രമീകരിക്കുകയാണെങ്കിൽ ആ പ്രത്യേക പ്ലാനർ അല്ലാത്ത സർക്യൂട്ടിനെ പ്ലാനർ സർക്യൂട്ടായി പരിവർത്തനം ചെയ്യാനാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും ഇത് പ്ലാനർ സർക്യൂട്ടിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ മെഷ് വിശകലനം ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ മെഷ് വിശകലനത്തിൽ മെഷ് കറന്റ് നിർണ്ണയിക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് മെഷുകളുടെ എണ്ണത്തിനായി നിങ്ങൾ ആദ്യം മെഷ് കറന്റ് I1 I2 I3 തുടങ്ങിയവ നൽകണം ഈ സാഹചര്യത്തിൽ n മെഷ് ഉണ്ടെന്ന് കരുതുക തുടർന്ന് നിങ്ങൾ ഓരോ n മെഷിലും കിർചോഫിന്റെ വോൾട്ടേജ് നിയമം പ്രയോഗിക്കുകയും മെഷ് കറന്റ് ഇന്റെ അടിസ്ഥാനത്തിൽ വോൾട്ടേജുകൾ പ്രകടിപ്പിക്കുന്നതിന് ഓം നിയമം ഉപയോഗിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന സമവാക്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമ്പോൾ മെഷ് കറന്റ് നിങ്ങൾക് ലഭിക്കും ഇപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം ഓരോ മെഷിനും ഇഷ്ടമുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ദിശയിലോ ഒരു മെഷ് കറന്റ് നൽകിയിട്ടുണ്ടെങ്കിലും എന്നാൽ ഓരോ മെഷ് കറന്റും ഘടികാരദിശയിൽ പ്രവഹിക്കുന്നുവെന്ന് അനുമാനിക്കുന്നത് പരമ്പരാഗതമാണ് കാരണം ഇത് സർക്യൂട്ട് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പമാവുകയും പിശകുകൾക്ക് സാധ്യത കുറവായിരിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലെന്നപോലെ ഇവിടെ മെഷ് കറന്റുകളുടെ ദിശ ഘടികാരദിശയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ മെഷ് വിശകലനം നിങ്ങൾ എങ്ങനെ ചെയ്യും മെഷ് വിശകലന രീതി നിങ്ങൾ കാണുകയാണെങ്കിൽ അത് കിർചോഫിന്റെ നിയമത്തിന്റെ വിപുലീകരണം മാത്രമാണ് കാരണം ഇവിടെയും നിങ്ങൾ കറന്റുകളുടെ മൂല്യം കണ്ടെത്തുന്നതിന് കിർചോഫിന്റെ കറന്റ് നിയമം പ്രയോഗിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക ചിത്രം പരിഗണിക്കുകയാണെങ്കിൽ അവിടെ നെറ്റ്വർക്ക് നു മൂന്ന് കറന്റ് പ്രവാഹങ്ങളുണ്ടെന്ന് കാണാം അതായത് I1 I2 I3 എല്ലാ കറന്റ് ഉം ഘടികാരദിശയിൽ നൽകിയിട്ടുണ്ട് തെറ്റുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടു തുടർന്ന് മെഷ് കറന്റുകൾ എന്ന് വിളിക്കുന്ന ഈ വൈദ്യുതധാരകളെ വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ സർക്യൂട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ഓരോ മെഷിലും നിങ്ങൾ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ഉപയോഗിക്കും തുടർന്ന് ആ മെഷ് വൈദ്യുതധാരകളുടെ സമവാക്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും അതിനാൽ ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടാൽ ആദ്യത്തെ മെഷിന്റെ സമവാക്യം ആയിരിക്കും അതുപോലെ രണ്ട് മൂന്ന് ലൂപ്പിനായി നിങ്ങൾക്ക് എഴുതാൻ കഴിയും അടുത്ത ഘട്ടം നിങ്ങൾ ഈ പ്രത്യേക സമവാക്യങ്ങൾ വിശകലനം ചെയ്യുകയും കറന്റ് I1 I2 I3 എന്നിവയുടെ മൂല്യം കണ്ടെത്തുകയും വേണം പ്രധാന കാര്യം ബ്രാഞ്ച് വൈദ്യുതധാരകൾ നിർണ്ണയിക്കുന്നത് ആ ശാഖയ്ക്ക് പൊതുവായ മെഷ് കറന്റ്കളുടെ ഫേസർ തുകയാണ് അതിനർത്ഥം ഈ പ്രത്യേക ബ്രാഞ്ചിനായുള്ള ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ബ്രാഞ്ച് കറന്റ് ഈ രണ്ടിന്റെയും ഫേസർ തുകയായിരിക്കും ഫേസർ തുക എന്നാൽ നിങ്ങൾ ദിശ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഈ പ്രത്യേക വിഭാഗത്തിന് ബ്രാഞ്ച് കറന്റ് I1 മൈനസ് I2 ആയിരിക്കും ബ്രാഞ്ച് പ്രവാഹങ്ങൾ മെഷ് വൈദ്യുത പ്രവാഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും മെഷ് ഒരു ഒറ്റപ്പെട്ട മെഷ് അല്ലാത്തപക്ഷം ഇങ്ങനെയായിരിക്കുമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം വിശകലനത്തിന് ആവശ്യമായ എല്ലാ സമവാക്യങ്ങളും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ സ്ഥിരീകരിക്കും എന്ന ചോദ്യം ഇപ്പോൾ വരും നിങ്ങൾ നെറ്റ്വർക്ക് ടോപ്പോളജി ഉപയോഗിച്ച കണ്ടെത്തേണ്ടി വരും അതിനാൽ നെറ്റ്വർക്ക് ടോപ്പോളജിയുടെ പ്രമേയം നിങ്ങൾ കാണുകയാണെങ്കിൽ ബ്രാഞ്ചുകളുടെ എണ്ണം ലൂപ്പുകളുടെ എണ്ണം പ്ലസ് നോഡുകളുടെ എണ്ണം മൈനസ് ഒന്നിന് തുല്യമാണെന്ന് ഇത് പറയുന്നു അതിനാൽ ഈ പ്രത്യേക ചിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 2 3 നോഡുകളും 12345 ഉം ശാഖകൾ ഉണ്ടാകും അതിനാൽ നോഡുകളുടെ എണ്ണം മൂന്ന് ആണ് ശാഖകളുടെ എണ്ണം അഞ്ച് ആണ് എത്ര ലൂപ്പുകൾ ഉണ്ട് ആ സർക്യൂട്ടിലെ ലൂപ്പുകളുടെ എണ്ണം മൂന്ന് ആണ് അതിനർത്ഥം സർക്യൂട്ട് പരിഹരിക്കുന്നതിന് 3 സ്വതന്ത്ര ലൂപ്പുകളും 3 സ്വതന്ത്ര സമവാക്യങ്ങളും ആവശ്യമാണ് എന്നാണ് ഈ പ്രത്യേക സർക്യൂട്ട് പരിഹരിക്കുന്നതിന് നമ്മൾ സൃഷ്ടിച്ച 3 സ്വതന്ത്ര സമവാക്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക് കാണാം അതിനാൽ ഇപ്പോൾ ഒരു ഉദാഹരണം വേഗത്തിൽ എടുക്കാം അതുവഴി നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക സർക്യൂട്ട് കാണുകയും എല്ലാ 3 മെഷ് വൈദ്യുത പ്രവാഹങ്ങൾക്കും സമവാക്യങ്ങൾ എഴുതുകയും ചെയ്താൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും ലൂപ്പ് 1 ന് 3 5I1 − I2 4 ലൂപ്പ് 2 ന് 4 1 6 5I2 − I1 − I3 0 ലൂപ്പ് 3 ന് 1 8I3 − I2 −5 ഇപ്പോൾ നിങ്ങൾ പുനർക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 സമവാക്യങ്ങൾ ലഭിക്കും പരിഹരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കും I1 0 595 A I2 0 152 A ഒപ്പം I3 −0 539 A അതുപോലെ തന്നെ നിങ്ങൾക്ക് 5 ഓം 1 ഓം റെസിസ്റ്ററുകളിൽ വൈദ്യുതധാരയുടെ മൂല്യം കണക്കാക്കാം കാരണം ഇവ ബ്രാഞ്ച് കറന്റ് ഉകൾ ആണ് 5 ഓം റെസിസ്റ്റർ ഇന്റെ ബ്രാഞ്ച് കറന്റ് I1 − I2 0 152 0 44A ഉം 1 ഓം റെസിസ്റ്റൻസിലെ കറന്റ് I2 − I3 0 539 0 ആയിരിക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാ ദിശകളും ഘടികാരദിശയിൽ എടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നെഗറ്റീവ് ചിഹ്നത്തോടുകൂടിയ നെഗറ്റീവ് കറന്റ് ലഭിച്ചു അതിനർത്ഥം ഞങ്ങളുടെ വൈദ്യുതധാരയുടെ പ്രാരംഭ ദിശ ഘടികാരദിശയിലായിരുന്നുവെങ്കിലും ഒടുവിൽ വൈദ്യുതധാരയുടെ ദിശ എതിർ ഘടികാരദിശയിലാണെന്നാണ് അതിനാൽ മികച്ച വിശകലനത്തിനായി ആദ്യം അവയെല്ലാം ഒരു ദിശയിൽ വെക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതുപയോഗിച്ച് നിങ്ങളുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും അടുത്ത സെഷനിലും മെഷ് വിശകലനം ഉപയോഗിച്ച് വിശകലനം തുടരും